എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലാണ് തുടർന്ന് ഈ ആഴ്ചയിലെ മൊഡ്യൂളുകളുടെ അവസാന രണ്ട് പ്രഭാഷണങ്ങളിലാണ് ഈ ആഴ്ച പ്രത്യേകിച്ചും ഞാൻ ശീലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ഒരു പുതിയ പദം അവതരിപ്പിച്ചു തുടർന്ന് നമ്മൾ ഈ സൈഗാർനിക് ഇഫക്റ്റുമായി തുടരും എന്നാൽ നമുക്ക് ഈ പ്രഭാവം നോക്കാൻ ശ്രമിക്കാം ഉൽപ്പാദനക്ഷമതയ്ക്കും വ്യക്തിഗത വളർച്ചയ്ക്കും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇത് മൊഡ്യൂൾ 5 ആണ് മൊത്തത്തിൽ ഇത് നിങ്ങൾ കാണുന്ന 17 ാമത്തെ പ്രഭാഷണമായിരിക്കും നിങ്ങൾ ഈ പ്രഭാഷണങ്ങൾ കാണുന്നത് ആസ്വദിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പതിവുപോലെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളുടെ ഒരു ദ്രുത ഹൈലൈറ്റിൽ നിന്ന് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മറന്നുപോയെങ്കിൽ മുമ്പത്തേതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടെടുക്കാം കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ചിലർക്ക് ഒരു മിന്നൽ നിമിഷത്തിനുള്ളിൽ അവരുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും എന്നാൽ മറ്റുള്ളവർക്ക് വർഷങ്ങളോളമെടുത്താലും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെയധികം പരിശ്രമം നടത്തേണ്ടിവന്നാലും ചില ശീലങ്ങൾ മാറ്റാൻ കഴിയാത്തത് പിന്നെ മറ്റാരെങ്കിലും അത് വളരെ വേഗത്തിൽ മാറ്റുന്നു അതിനുത്തരം യഥാർത്ഥത്തിൽ ഡോപാമൈൻ പ്രവർത്തിക്കുന്ന രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു നല്ലതോ ചീത്തയോ ആയ ശീലങ്ങൾ സ്വയം ഉണ്ടാക്കാനോ കൂടുതൽ ഉപയോഗപ്പെടുത്താനോ നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതിയും ഇപ്പോൾ അതിനുപുറമെ ചില ആളുകൾക്ക് വേഗത്തിൽ മാറാൻ കഴിയുന്നത് അവരുടെ സ്വയം അവബോധത്തിന്റെ തോത് വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സ്വയം അവബോധത്തിന്റെ വശങ്ങളുമായി ഞങ്ങൾ ആമുഖ പ്രഭാഷണം ആരംഭിച്ചു തുടർന്ന് നിങ്ങൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ നിങ്ങളുടെ സ്വയം അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള പാതയിലാണ് അപ്പോൾ നമ്മൾ ധാരണകളെക്കുറിച്ചും സംസാരിച്ചു അതിനാൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണകളെക്കുറിച്ചും എന്താണ് നല്ല ശീലം എന്താണ് മോശം ശീലം എന്ന് വിലയിരുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അവസാനമായി നിങ്ങൾക്ക് ഡോപാമൈൻ വളരെ ക്രിയാത്മകമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം കാരണം ആസക്തി ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഡോപാമൈൻ വളരെ നിർണായക പങ്ക് വഹിക്കുന്നു ഇപ്പോൾ സുഖം തേടാൻ എളുപ്പമുള്ള സാഹചര്യങ്ങളിലാണ് മോശം ശീലങ്ങൾ സാധാരണയായി രൂപപ്പെടുന്നത് അതിലൂടെ നിങ്ങൾക്ക് കുറഞ്ഞത് തൽക്കാലം വേദനാജനകമോ വിയോജിപ്പുള്ളതോ ആയ അനുഭവങ്ങൾ ഒഴിവാക്കാനും കഴിയും ഇതിനർത്ഥം ഒരു വശത്ത് നിങ്ങൾക്ക് തൽക്ഷണ ആനന്ദം നൽകുന്ന വളരെ നല്ല പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ കഴിയും എന്നാണ് അതേ സമയം നിങ്ങൾക്ക് വിയോജിപ്പുള്ളതായി തോന്നുന്ന എന്തെങ്കിലും ഒഴിവാക്കാൻ കഴിയും ഉദാഹരണത്തിന് ആരെയെങ്കിലും കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യുക മറ്റൊരു കാര്യം നിങ്ങൾ പോയി ഒരു പാർട്ടിയിൽ ചേരുക കുറച്ച് സമയത്തേക്ക് ഒരു ജന്മദിന പാർട്ടി ആസ്വദിക്കുക അപ്പോൾ നിങ്ങൾ പരിഭ്രാന്തരാകുകയും നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും പിരിമുറുക്കത്തിൽ നിന്ന് മുക്തമാവുകയും ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആ വിയോജിപ്പുള്ള പ്രവർത്തനം പൂർത്തിയാക്കുന്നതിൽ അത് ഉൾപ്പെടുന്നു തുടർന്ന് ഞാൻ ഈ സൈഗാർനിക് ഇഫക്റ്റിനെക്കുറിച്ച് സംസാരിച്ചു അത് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കേണ്ടതിന്റെ നിർബന്ധിത ആവശ്യകതയെ എടുത്തുകാണിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെ തലച്ചോറിന് കാരണമാകുന്ന പ്രചോദന തന്മാത്ര എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒന്നുകിൽ പ്രതിഫലം നൽകുന്നതിനോ അല്ലെങ്കിൽ നമ്മെ ശിക്ഷിക്കുന്നതിനോ വേണ്ടി നമുക്ക് ഈ ആനന്ദം നൽകുന്നതിന് ഉത്തരവാദിയാണ് ഇപ്പോൾ ഈ ഡോപാമൈനിനെക്കുറിച്ചുള്ള കാര്യം നിങ്ങൾ അതിനെ പ്രേരിപ്പിക്കാൻ ഒരു നല്ല ശീലമാണോ മോശം ശീലമാണോ ഉപയോഗിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ അറിയില്ല എന്നതാണ് ഇപ്പോൾ വൈകാരികമായ വേർപിരിയലുകളിൽ നിന്ന് പുറത്തുവരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നോക്കാൻ ഈ മനഃശാസ്ത്രപരമായ ധാരണ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു വൈകാരിക ബന്ധവും യഥാർത്ഥത്തിൽ നിങ്ങളെ ആസൂത്രണം ചെയ്തിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുമായും ആരംഭിച്ച നിരവധി പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെടുത്തുന്നു എന്നാൽ പെട്ടെന്ന് ഒരു വേർപിരിയൽ ഉണ്ടാകുമ്പോൾ അതിനാൽ ഇത് ഒരാൾക്ക് അപൂർണ്ണമായ നിരവധി ജോലികൾ അവശേഷിപ്പിക്കുന്നു അതിനാൽ വ്യക്തിക്ക് വൈരുദ്ധ്യമോ അപമാനമോ അനുഭവപ്പെടുന്നു ഇപ്പോൾ ഡോപാമൈൻ വഴി നിങ്ങൾക്ക് എങ്ങനെ അതിനെ വീണ്ടും നേരിടാൻ കഴിയും നിങ്ങൾ പുതിയ ലക്ഷ്യങ്ങൾ രൂപീകരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു പ്രത്യേകിച്ചും നിങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ടായാൽ ഫിറ്റ്നസ് നിലനിർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് പോലെ മറ്റെന്തെങ്കിലും പരീക്ഷിക്കുക ഓരോ തവണയും ഒരു ലക്ഷ്യം നേടുമ്പോൾ ഇത് ഒരു പുതിയ കൂട്ടം ഡോപാമൈൻ പുറത്തുവിടും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം ലഭിക്കുന്നുണ്ടെന്നും വൈകാരികമായ വേർപിരിയലുകളുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പതുക്കെ നിങ്ങൾ പുറത്തുവരുമെന്നും നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾ ആഗ്രഹിച്ചാലും സൈഗാർനിക് ഇഫക്റ്റ് ചിന്തകൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് വരികയും നുഴഞ്ഞുകയറുകയും ചെയ്തു മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം നിങ്ങൾ അത് അപൂർണ്ണമായി ഉപേക്ഷിച്ചു ഇനി ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ അത് പൂർണ്ണമായും കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചു നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയോ ചെയ്യുക അതിൽ നിന്ന് പൂർണ്ണമായും പുറത്തുകടന്ന സ്ഥലത്തേക്ക് പോകാതെ പുതിയ പ്രവർത്തനങ്ങളിൽ മുഴുകുക പുതിയ ഡോപാമൈൻ ആനുകൂല്യങ്ങൾ നേടുക അതിനുശേഷം നിങ്ങൾ യഥാർത്ഥത്തിൽ കടന്നുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഒരു കടന്നുപോകൽ എന്ന നിലയിൽ ഞാൻ പറഞ്ഞ മറ്റൊരു രസകരമായ കാര്യം പക്ഷേ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചില്ല മറ്റേയാൾ നിങ്ങൾക്കായി ചെയ്ത മോശം കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ സാധാരണയായി തുടക്കത്തിൽ ഒരു വൈകാരിക വേർപിരിയൽ സംഭവിക്കുമ്പോൾ ഒരുതരം കയ്പ്പ് ഉണ്ടാകുന്നു ഒരുതരം ദുഃഖം പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് തലച്ചോർ എല്ലായ്പ്പോഴും തിരികെ പോകും ആ സമയത്ത് നടന്ന ഏറ്റവും ആനന്ദകരമായ പ്രവർത്തനങ്ങൾ ഓർക്കുക അത് എല്ലായ്പ്പോഴും ആ ഐഡിയലിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഉൾപ്പെട്ടിരുന്ന വളരെ മഹത്തായ ഭൂതകാലത്തിന്റെ ആഹ്ലാദകരമായ നിമിഷങ്ങൾ പക്ഷേ അത് ചെയ്യുന്ന മറ്റൊരു കാര്യം അത് അവിടേക്ക് പോകുകയും തുടർന്ന് നിങ്ങളെ ബോധത്തോടെ വിടുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങൾക്ക് പിൻവലിക്കൽ ലക്ഷണങ്ങൾ നൽകുന്നത് അപൂർണ്ണതയിൽ നിന്ന് നിങ്ങളെ അകറ്റിനിർത്തുകയും പിൻവലിക്കൽ ലക്ഷണങ്ങൾ നൽകുകയും ചെയ്യുന്നു ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിനിർത്തുകയും വിഷാദം പോലുള്ള മറ്റ് ആഘാതകരമായ വികാരങ്ങൾ നിങ്ങൾക്ക് നൽകുകയും അത് നിങ്ങളെ ആത്മഹത്യാ പ്രവണതകളിലേക്ക് നയിക്കുകയും ചെയ്യും ഇതിനെ പ്രതിരോധിക്കാൻ മറ്റേയാൾ ചെയ്ത നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുതെന്ന് നിർദ്ദേശിക്കപ്പെടുന്നു കാരണം ഡോപാമൈൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ തലച്ചോറിനെ അത്തരം ആനന്ദം തേടാൻ പ്രേരിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ ആ ആനന്ദത്തെ ആ പ്രത്യേക വ്യക്തിയുമായി മാത്രം ബന്ധപ്പെടുത്തും അതിനാൽ നിങ്ങൾക്ക് മറ്റേ വ്യക്തിയുമായി ബന്ധപ്പെടാൻ കഴിയുകയും ആ വ്യക്തി ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കൂ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ പരിസരത്ത് ഇല്ല അല്ലെങ്കിൽ വ്യക്തമായ കാരണങ്ങളാൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായി വീണ്ടും ബന്ധപ്പെടാൻ കഴിയില്ല അതിനാൽ അത് വീണ്ടും നിങ്ങൾക്ക് നിഷേധാത്മക ചിന്തകൾ നൽകുകയും മോശം ശീലങ്ങൾ വളർത്തുകയും ചെയ്യും ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ മോശം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിർദ്ദേശിക്കുന്നു ചിലപ്പോൾ ആ വ്യക്തി വളരെ വിഡ്ഢിത്തമായി പെരുമാറും ബന്ധം നടക്കുമ്പോഴും ഈ വ്യക്തിയെ എന്നെന്നേക്കുമായി ഹാംഗ് ഔട്ട് ചെയ്യണമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നിരവധി ബ്രേക്കിംഗ് പോയിന്റുകൾ ഉണ്ട് പകരം നിങ്ങൾ ഒരു തെറ്റായ തീരുമാനമാണ് എടുത്തതെന്ന് നിങ്ങൾ പലതവണ കരുതി മറ്റേയാൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടാവാം ഇപ്പോൾ ഇത് ശരിയായ വ്യക്തിയല്ലെന്ന് നിങ്ങൾ കരുതിയ ആ സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ അത് പോകുന്നതും പോകുന്നതുമായ ഡോപാമൈൻ ആഗ്രഹം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും തുടർന്ന് ആ മനോഹരമായ നിമിഷം ആനന്ദകരമായ നിമിഷം തേടുന്നു അതിനാൽ ഡോപാമൈൻ ഘടകം കാരണം മെമ്മറി വീണ്ടും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അത് ഡോപാമൈൻ ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നാൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അപ്പോൾ അത് നിങ്ങളെ സ്വയം ശക്തിപ്പെടുത്തുകയും അതിൽ നിന്ന് നിങ്ങളെ പുറത്തുവരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ക്രമേണ എത്രയും വേഗം അല്ലെങ്കിൽ പിന്നീട് പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുക ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച അതേ സൈഗോണിക് പ്രഭാവം നമുക്ക് നോക്കാം നിങ്ങൾ അപൂർണ്ണമായി ഉപേക്ഷിച്ച ഏതെങ്കിലും പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാൻ വരുമ്പോഴെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നു ഇപ്പോൾ ഉൽപ്പാദനക്ഷമതയ്ക്കും വ്യക്തിഗത വളർച്ചയ്ക്കും നമുക്ക് ആ പ്രഭാവം എങ്ങനെ ഉപയോഗിക്കാം ഇപ്പോൾ പൂർത്തിയാകാത്ത പ്രവർത്തനം ഫലത്തിനനുസരിച്ച് ഉത്കണ്ഠ നൽകുന്നതിനാൽ ഒരു പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് പൂർത്തിയാകുന്നതുവരെ അതിൽ ഉറച്ചുനിൽക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം നിങ്ങൾ പൂർത്തിയാകാത്ത എന്തെങ്കിലും അവശേഷിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് ശരിയാണെന്ന് തോന്നുന്നു അത് പിന്നീട് പൂർത്തിയാക്കാമെന്ന് കരുതുന്നു എന്നിട്ട് നിങ്ങൾ പോയി മറ്റെന്തെങ്കിലും ആരംഭിക്കും എന്നാൽ നിങ്ങളുടെ മനസ്സ് ഇതുവരെ പൂർത്തീകരിക്കാത്ത ആ ദൌത്യത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു പിന്നെ അത് മറ്റൊരു പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് പിന്നോട്ട് പോയി നിങ്ങൾ അത് അപൂർണ്ണമായി ഉപേക്ഷിച്ചതിനെ കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് നിങ്ങൾ കൂടുതൽ സമയവും ഇതിനായി ചെലവഴിക്കുന്നു നിങ്ങൾ തിരിച്ചുപോയി അത് പൂർത്തിയാക്കുന്നതുവരെ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്വയം വളരെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള വ്യക്തിയാക്കാനും ഈ പ്രഭാവം വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും കഴിയും അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്ന ഒരു മാർഗ്ഗനിർദ്ദേശ തത്വം നിങ്ങൾ ഒരു ജോലി ആരംഭിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ അത് ആരംഭിച്ചാൽ അത് പൂർത്തിയാക്കുക അത് എന്തായാലും ഒരു പുസ്തകം വായിക്കുന്നത് പോലെയുള്ള ഏത് ചെറിയ കാര്യവും നിങ്ങൾ ഒരു പാട്ട് 10 മിനിറ്റ് കേൾക്കാൻ ആഗ്രഹിച്ചത് പോലെയാണെങ്കിലും അത് അപൂർണ്ണമായി വിടരുത് അത് പൂർത്തിയാക്കുക പ്രത്യേകിച്ച് വ്യക്തിപരമായ തലത്തിലോ പ്രൊഫഷണൽ തലത്തിലോ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾക്കിടയിൽ അത് ഉപേക്ഷിക്കരുത് നിങ്ങൾ അത് പൂർത്തിയാക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന വളർച്ചാ ശീലമാണ് ഞാൻ അത് ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ അത് പൂർത്തിയാക്കുമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയണം എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അവയ്ക്കിടയിൽ ഞാൻ നിൽക്കും എല്ലാ ബുദ്ധിമുട്ടുകളും മറികടക്കും പക്ഷേ ഞാൻ അത് പൂർത്തിയാക്കും ഞാൻ സഹിഷ്ണുതയോടെ അവിടെ ഉണ്ടാകും അത് പൂർത്തിയാക്കാൻ അവസാനം വരെ ഞാൻ ശ്രമിക്കും കാരണം അത് പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് പൂർത്തീകരണബോധം നൽകുന്നു പൂർത്തീകരണബോധം നിങ്ങൾക്ക് അങ്ങേയറ്റം സംതൃപ്തിയും ആനന്ദവും മനസ്സമാധാനവും നൽകുന്നു ഈ കോഴ്സിലുടനീളം നിങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നതാണ് ഏത് തരത്തിലുള്ള ആനന്ദത്തേക്കാളും വളരെ പ്രധാനമാണ് അത് ഏതുതരം സന്തോഷവും തേടുന്നു പക്ഷേ നിങ്ങൾ സ്വയം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കും നിങ്ങൾ ഉയർന്ന തലത്തിലുള്ള സ്വയം അവബോധത്തോടെ പ്രവർത്തിക്കുമ്പോയും നിങ്ങൾക്ക് ഒരു ടാസ്ക് പൂർത്തിയാക്കാൻ കഴിയുമ്പോയും അത് ലഭിക്കും അത് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ആനന്ദകരമായ മനസ്സമാധാനം നൽകും പശ്ചാത്താപമില്ലാത്ത ഒരു ജീവിതം നയിക്കുക എന്നാൽ നിങ്ങൾക്ക് പൂർണ്ണ സമാധാനം നൽകുന്ന ജീവിതവും നയിക്കുക ഇപ്പോൾ നിങ്ങൾ ഒരു പൂർത്തിയാക്കിയ ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠയും ഇല്ലാതാവുകയും ചെയ്യും തുടക്കത്തിൽ നിങ്ങൾ അപൂർണ്ണമായ എന്തെങ്കിലും അവശേഷിപ്പിക്കുകയാണെങ്കിൽ ചിന്തകൾ നിങ്ങളെ വേട്ടയാടും അപ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ നിങ്ങളെ അനുവദിക്കില്ല അത് നിങ്ങളുടെ താഴ്ന്ന ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും അത് നിങ്ങളെ ദുർബലപ്പെടുത്തുകയും നിങ്ങളെ കൂടുതൽ കൂടുതൽ ഉത്കണ്ഠാകുലരാക്കുകയും ചെയ്യും പക്ഷേ അപ്പോൾ നിങ്ങൾ ഒരു പൂർത്തിയാക്കിയ ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ഈ ഭാഗം മനസ്സിലാക്കുക അതിനാൽ അത് നിങ്ങളുടെ വ്യക്തിത്വം കെട്ടിപ്പടുക്കാൻ പോകുന്നു അത് ഞാൻ എന്തെങ്കിലും തുടങ്ങും ഞാൻ അത് പൂർത്തിയാക്കും എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കും നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസം കവിയുകയും ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഓടുകയും ചെയ്യും കാരണം ഞാൻ ഈ വ്യക്തിയെ സമീപിക്കണമെന്ന് അവർ കരുതുന്നു കാരണം ഞാൻ ഈ ചുമതല നൽകിയാൽ അത് പൂർത്തിയാകും ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈ അറിവ് കാലതാമസം മറികടക്കാനും സഹായിക്കുന്നു ഒരാൾക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മോശം ശീലങ്ങളിലൊന്നാണ് കാലതാമസം ഈ ചിന്തയും ഈ സാക്ഷാത്കാരവും ആന്തരികവൽക്കരണവും മാത്രം കാലതാമസം മറികടക്കാൻ നിങ്ങളെ സഹായിക്കും ഇത് പ്രാരംഭ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾ നീട്ടിവെക്കുന്ന ഏതൊരു ജോലിയും നിങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ടിരിക്കും ഇത് തുടക്കത്തിലെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അത് എങ്ങനെയെങ്കിലും ആരംഭിക്കുക നിങ്ങൾ അത് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഡോപാമൈൻ നിങ്ങൾക്ക് നൽകുന്ന ഉല്ലാസകരമായ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങൾ അത് പൂർത്തിയാക്കുന്നില്ലെങ്കിൽ ഈ സിഗാർനിക് പ്രഭാവം നിങ്ങളെ സ്വതന്ത്രരാക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമെന്നതിനാൽ നിങ്ങൾ അത് എന്തായാലും പൂർത്തിയാക്കും അതിനാൽ നിങ്ങൾ അത് എങ്ങനെയെങ്കിലും ആരംഭിക്കുകയും എന്നിട്ട് നിങ്ങൾ അത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കുകയും ചെയ്യും കാലതാമസം മറികടക്കാൻ അത്രയേ ആവശ്യമുള്ളൂ എന്ന ചിന്ത എങ്ങനെയോ അത് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങളുടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യപടി എടുക്കുക മാത്രമാണ് അതിനാൽ ബാക്കിയുള്ളവ സംഭവിക്കും നിങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കാത്ത അസൈൻമെന്റ് എഴുതാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത് ആദ്യത്തെ കുറച്ച് വരികൾ എഴുതുക മാത്രമാണ് വാസ്തവത്തിൽ ഞാൻ 10 മിനിറ്റ് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അപ്പോൾ ആ പ്രവർത്തനത്തിൽ 10 മിനിറ്റ് മാത്രം നടക്കുക അപ്പോൾ 10 മിനിറ്റിനുശേഷം നിങ്ങൾ ഇതിനകം ചാർജ് ചെയ്തതായി നിങ്ങൾക്ക് അനുഭവപ്പെടും കാരണം ഇപ്പോൾ സിഗാർനിക് പ്രഭാവം സജീവമാകാൻ പോകുന്നു തുടർന്ന് ഡോപാമൈനുമായുള്ള സംയോജനത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് അപൂർണ്ണമായി വിടാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അത് തുടരേണ്ടതുണ്ട് അതിനാൽ ആരംഭിക്കുകയും തുടർന്ന് നിങ്ങൾ അത് പൂർത്തിയാക്കുകയും ഒരു നല്ല ശീലം വളർത്തിയെടുക്കുന്നതിനായി അത് ഒരുതരം സ്വർണ്ണ കീ ലൈനായി സൂക്ഷിക്കുകയും ചെയ്യുക പ്രത്യേകിച്ചും നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയും വ്യക്തിഗത വളർച്ചയും വികസിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തലച്ചോറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട മറ്റ് ചില വശങ്ങളുണ്ട് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും അത് നിങ്ങളെ സഹായിക്കും ഇപ്പോൾ നമ്മൾ ആരംഭിച്ച ഒരു പ്രവർത്തനത്തിന്റെ ചക്രം മസ്തിഷ്കം പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് തലച്ചോറിനെ ആസക്തി ശീലങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അതിൽ പൂർത്തിയാകാത്തതോ അപൂർണ്ണമോ ആയ ഒരു ജോലിയും നിങ്ങൾ പാറ്റേൺ ചെയ്യേണ്ടതില്ല അതിൻ്റെ അർത്ഥമെന്താണ് ഇപ്പോൾ ഒരു പ്രവർത്തന ചക്രം പൂർത്തീകരിച്ചു എന്ന തോന്നൽ തലച്ചോറിന് ലഭിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തലച്ചോറിനെ ആസക്തി ശീലങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അപൂർണ്ണമായി അവശേഷിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി നിങ്ങൾ അത് പാറ്റേൺ ചെയ്യരുത് ഇതിനർത്ഥം പൂർത്തിയാകാത്ത ജോലികൾ പ്രീമിയം ഇടം കൈവശപ്പെടുത്തുകയും തടയുകയും ചെയ്യുന്നതിലൂടെ വലിയ അളവിൽ മാനസിക വിഭവങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് എന്നാൽ നിങ്ങൾ അത് പൂർത്തിയാക്കുന്നതുവരെ പോകാൻ വിസമ്മതിക്കുന്നു അതിനാൽ പൂർത്തിയാകാത്ത പ്രവർത്തനങ്ങൾ അതിനാൽ അവ ക്യാൻസർ വ്യാപിക്കുന്നതും നിങ്ങളുടെ തലച്ചോറിലെ പ്രീമിയം ഇടം കൈവശപ്പെടുത്തുന്നതും പോലെയാണ് എന്നിട്ട് നിങ്ങൾ അവയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ അവയെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ അതിനാൽ മറ്റ് സൃഷ്ടിപരവും രസകരവും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നതിന് ആ പ്രധാന ഇടം കൈവശപ്പെടുത്താൻ അവർ നിങ്ങളെ അനുവദിക്കില്ല അപൂർണ്ണമായ പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖലയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കണമെങ്കിൽ ഈ കാരണത്താൽ മാത്രം നിങ്ങൾ ഏതെങ്കിലും ടെലിവിഷൻ പരമ്പരകൾ കാണുന്നത് നിർത്തണം എന്തുകൊണ്ട് നിങ്ങൾ ടെലിവിഷൻ പരമ്പരകൾ കാണരുത് കാരണം മസ്തിഷ്കം നിർബന്ധിത ടിവി സീരിയൽ കാണൽ പോലെയുള്ള ആസക്തി നിറഞ്ഞ സ്വഭാവം രൂപപ്പെടുത്തുന്നു ആരാണ് ഇത് ചെയ്തത് അടുത്തതായി എന്താണ് സംഭവിക്കുന്നത് ആരാണ് കൊലയാളി എന്ന വിവരം ലഭിക്കുന്നതുവരെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ആ വ്യക്തിക്ക് ഓർമ്മ തിരികെ ലഭിക്കുമോ ഇല്ലയോ ആ വ്യക്തി മരിക്കുമോ ഇല്ലയോ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അടുത്ത ദിവസം അടുത്ത ആഴ്ച കാണിക്കും അതിനാൽ മസ്തിഷ്കത്തിന് അത് അറിയപ്പെടുന്ന വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അടുത്ത ആഴ്ചയിലോ അതിനു ശേഷമുള്ള ആഴ്ചയിലോ സീരിയൽ തുടരില്ല എന്ന് പൂർണ്ണമായി അത് വർഷങ്ങളോളം യുഗങ്ങളോളം അത് പൂർത്തിയായതായി അറിയാൻ ആഗ്രഹിക്കുന്നതുവരെ കാണിച്ചാൽ പോലും അത് കാണുന്നത് തുടരുമെന്ന് അറിയേണ്ടതുവരെ അത് കാണുമ്പോൾ തലച്ചോറിന് ആസക്തി തോന്നുന്നു അതിനാൽ ഉയർന്ന തോതിലുള്ള ഉൽപ്പാദനക്ഷമതയും വ്യക്തിഗത വളർച്ചയും വികസിപ്പിക്കാൻ സഹായിക്കുന്ന കൂടുതൽ പ്രവർത്തനങ്ങൾക്കായി നിങ്ങളുടെ തലച്ചോറിൽ ധാരാളം ഇടം സ്വതന്ത്രമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും സീരിയലുകൾ കാണുന്നത് നിർത്തുക വീഡിയോ ഗെയിമുകൾ കളിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നു ഇപ്പോൾ വീഡിയോ ഗെയിമുകൾ നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾ ഒരു തലത്തിലെത്തുകയും നിങ്ങൾ അത് പൂർത്തിയാക്കാൻ പോകുകയും ചെയ്യുന്നുവെന്ന തോന്നൽ നിങ്ങൾക്ക് ലഭിക്കുന്നു പക്ഷേ അവർ അവസാന തലത്തിലെത്താൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല അപ്പോൾ അവസാനത്തെ വാതിൽ തുറക്കാനും തുടർന്ന് പോയി നിധി എടുക്കാനും അവർ നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല അതിനാൽ ഇത് എല്ലായ്പ്പോഴും അടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ പര്യാപ്തമല്ല ഇപ്പോൾ ഗെയിമുകൾ അത് ഉറപ്പാക്കും നിങ്ങൾ അതിൽ ഉറച്ചുനിൽക്കുന്നുവെന്നും എല്ലായ്പ്പോഴും അതിന് അടിമപ്പെടുമെന്നും ഇത് ഉറപ്പാക്കും ഒരു സ്ഥിരമായ ആസക്തി സ്ഥിരമായ അടിമത്തം ഈ സൈഗോണിക് പ്രഭാവം മൂലമാണ് ഉണ്ടാകുന്നത് ഇത് പോസിറ്റീവോ നെഗറ്റീവോ ആയി ഉപയോഗിക്കാം വീഡിയോ ഗെയിമുകളിൽ ഇത് നിങ്ങളെ ഗെയിമുകളിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ മനസ്സ് എല്ലായ്പ്പോഴും ഞാൻ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് അന്വേഷിക്കുന്നു ഞാൻ പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഒരിക്കലും നിങ്ങളെ പൂർത്തിയാക്കാൻ അനുവദിക്കില്ല അപ്പോൾ നമുക്ക് വളരെ ക്രിയാത്മകമായ പോസിറ്റീവ് രീതിയിൽ സൈഗോണിക് പ്രഭാവം ഉപയോഗിക്കാമോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ സൈഗോണിക് പ്രഭാവം നിങ്ങൾക്ക് പ്രചോദനം നൽകും രോഗശയ്യയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനും ആദ്യം തന്നെ ജോലി പൂർത്തിയാക്കാനും അതിനാൽ മികച്ച കലാകാരന്മാർ പോലും എല്ലായ്പ്പോഴും ചെയ്തിട്ടുണ്ട് അതിനാൽ ഒരു ഉൽപ്പന്നം അപൂർണ്ണവും അപൂർണ്ണവുമായി തുടരുമ്പോൾ അത് മനസ്സിലെ ഈ ചിന്തയാണ് ഞാൻ രോഗിയാണെങ്കിൽ പോലും ഞാൻ അത് പൂർത്തിയാക്കണം ഞാൻ അത് പൂർത്തിയാക്കണം അതിനാൽ അത് അവരെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വേദനയെ മറികടക്കാനും തുടർന്ന് പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നു തുടർന്ന് പ്രകടനം നടത്തുക ഈ പ്രവർത്തനം കാരണം പീക്ക് പ്രകടനങ്ങൾ അനുഭവിക്കുക നിങ്ങൾ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം ലഭിക്കില്ലെന്ന് തലച്ചോറിലേക്ക് മനസ്സ് വയർ ചെയ്തു നിങ്ങൾക്ക് ആ സൃഷ്ടിപരമായ അനുരഞ്ജനം ലഭിക്കില്ല അത് വൈരുദ്ധ്യം മാത്രമായിരിക്കും ഇപ്പോൾ ലളിതമായ ഉദാഹരണം ഇയർവർമ്മുകളാണ് അതിനാൽ ഇയർവർമുകൾ ആലങ്കാരികമായി ഗാനങ്ങളെ പരാമർശിക്കുന്നത് പോലെയാണ് അപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും അത് എങ്ങനെ വന്നുവെന്ന് നിങ്ങൾക്കറിയില്ല ഒരുപക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ റേഡിയോയിൽ എവിടെയെങ്കിലും കേൾക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ആ പാട്ടിന്റെ ഒരു വാക്ക് പരാമർശിക്കുകയോ ചെയ്തു അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു പിന്നെ അത് ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് പോലെയാവുകയും ചെയ്യുന്നു അതിനാൽ അത് ഇയർവോം പോലെയാണ് അത് നിങ്ങളുടെ ചെവിയ്ക്കുള്ളിലാണ് അപ്പോൾ നിങ്ങൾ പൂർണ്ണ സമയം നൽകിയില്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അത് പൂർണ്ണമായും കേൾക്കുന്നു തുടർന്ന് നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നു ഞാൻ അത് പൂർണ്ണമായും പൂർത്തിയാക്കുകയാണ് പോകൂ എന്നത് കൊണ്ടൊന്നും അത് നിങ്ങളെ വിട്ടുപോകാൻ പോകുന്നില്ല അതിനാൽ ചിലപ്പോൾ ദിവസം മുഴുവൻ അത് നിങ്ങളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും കളിക്കുന്നു ആരെങ്കിലും അത് ആരംഭിച്ചു ആരോ വഴിയിൽ അത് വിസിൽ ചെയ്തു പക്ഷേ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചെവിയിൽ ലഭിച്ചു ഇപ്പോൾ ഇത് വീണ്ടും ഈ സൈഗാർനിക് പ്രഭാവത്തിന്റെ ഒരു ലളിതമായ ഉദാഹരണമാണ് അവിടെ അപൂർണ്ണമായ കാര്യങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നത് തുടരും ഈ പ്രഭാവം കാരണം കയ്യിലുള്ള ഒരു ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത ഒരു കാര്യത്തിലും മസ്തിഷ്കം മുഴുകിയിരിക്കുന്നു എന്നാൽ സൈഗാർനിക് ഇഫക്റ്റിന്റെ ആന്തരികവൽക്കരണം ഏത് പ്രവർത്തനവും നേടുന്നതിനോ മികവ് പുലർത്തുന്നതിനോ നിങ്ങൾക്ക് ആവശ്യമായ ആന്തരിക പ്രചോദനം നൽകും ഇതിൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ആന്തരികമാക്കാൻ കഴിയുമെങ്കിൽ ആഴത്തിൽ ചിന്തിക്കുക തുടർന്ന് അത് തിരിച്ചറിയുകയും ഞാൻ ഒരു പ്രവർത്തനം ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്താൽ ഈ സൈഗാർനിക് പ്രഭാവം എന്നിൽ പ്രവർത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ഞാൻ മുമ്പ് പൂർത്തിയാക്കാത്ത ജോലികളിലേക്ക് മടങ്ങാൻ ഇത് എന്നെ പ്രേരിപ്പിക്കില്ല അതിനാൽഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിൽ കുടുങ്ങിപ്പോകുന്നതിനേക്കാൾ എനിക്ക് എല്ലായ്പ്പോഴും പുതിയ പ്രവർത്തനങ്ങൾ ചെയ്യാനും സൃഷ്ടിപരമായ ജോലികളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും സമയമുണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആദ്യം നിങ്ങൾ അത് പൂർത്തിയാക്കി അതിൽ നിന്ന് പുറത്തുവരികയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അത് ആരംഭിക്കും ഞാൻ പൂർത്തിയാക്കും ഞാൻ ഒന്നും അപൂർണ്ണമായി വിടുകയില്ല എന്ന് നിങ്ങൾ അത് ആന്തരികവൽക്കരിക്കണം അല്ലാത്തപക്ഷം ഇത് സൈഗാർനിക് പ്രഭാവം ആയിരിക്കും അതിനാൽ ഇത് എന്റെ ഓർമ്മയെ തിരികെ പോകാൻ അനുവദിക്കും തുടർന്ന് അത് ഏറ്റവും അസുഖകരമായ സമയത്തിലോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രവർത്തനത്തിന് ഞാൻ നൽകുന്ന സുപ്രധാന സമയത്തിലോ നുഴഞ്ഞുകയറാൻ പോകുന്നു അത് വന്ന് എന്നെ വേട്ടയാടുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ തലച്ചോറിനെ പൂർത്തീകരണത്തിനായി റീവൈർ ചെയ്യാൻ കഴിയും കാരണം അത് നിങ്ങളെ പിരിമുറുക്കം പരിഹരിക്കുന്നതിലേക്ക് കൊണ്ടുപോകുകയും ഫീൽ ഗുഡ് ഘടകം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ തലച്ചോറിനെ മനസ്സിലാക്കാൻ നിങ്ങൾ പൂർണ്ണമായും ശ്രമിക്കുക ഞാൻ അത് പൂർത്തിയാക്കിയാൽ ഏത് പിരിമുറുക്കവും പരിഹരിക്കാൻ എനിക്ക് കഴിയും മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഈ നല്ല അനുഭവം നൽകുകയും ചെയ്യുന്നുവെന്നു ഞാൻ പൂർത്തിയാക്കി എന്നെക്കുറിച്ച് എനിക്ക് സുഖം തോന്നുന്നു ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൂർത്തിയാക്കുന്നില്ല അതിനാൽ ഇത് എന്നെ വീണ്ടും വേട്ടയാടാൻ പോകുന്നു മറ്റൊരു ജോലി മികച്ച രീതിയിൽ ചെയ്യാൻ ഇത് എന്നെ അനുവദിക്കില്ല അതിനാൽ ഞാൻ അത് പൂർത്തിയാക്കട്ടെ അതിനാൽ ഇത് മനസ്സിൽ വയ്ക്കുക ഈ ഒരൊറ്റ ഗുണവും ഈ സൈഗാർനിക് പ്രഭാവം ഉള്ളതിനാൽ അത് എന്റെ മനസ്സിൽ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എതിർക്കാൻ ഞാൻ എല്ലായ്പ്പോഴും ഒരു ടാസ്ക് ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യും ഞാൻ ഒരിക്കലും ഒന്നും അപൂർണ്ണമായി ഉപേക്ഷിക്കില്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ചെറിയ കാര്യം ഇമെയിൽ ഇൻബോക്സ് നിങ്ങളുടെ ഇൻബോക്സിൽ ഏകദേശം 5000 മെയിലുകൾ ഉണ്ടെന്ന് പറയാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ മെയിലുകളും ഇല്ലാതാക്കാനും ഫോൾഡറുകൾ സൃഷ്ടിക്കാനും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പിന്നീട് ഇടുകയും നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഇൻബോക്സിൽ 0 സൃഷ്ടിക്കുകയും ചെയ്യുക അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളെ കൂടുതൽ ഉൽപ്പാദനക്ഷമമാക്കുകയും ഈ സൈഗാർനിക് പ്രഭാവം പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അല്ലാത്തപക്ഷം ഓരോ തവണയും നിങ്ങൾ ഇമെയിലിന് പോകുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഭാരമുണ്ടാക്കുന്നു നിങ്ങൾ അവശേഷിപ്പിച്ച എന്തോ ഉണ്ടെന്ന് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട എന്തെങ്കിലും അവിടെ കുഴിച്ചിട്ടിരിക്കാം നിങ്ങൾ അത് നോക്കാൻ മറന്നു പക്ഷേ അത് പരിശോധിക്കാൻ സമയമില്ല എന്നാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ മനസ്സ് പൂർണ്ണമായും സ്വതന്ത്രമാണ് തുടർന്ന് തലച്ചോറിന് പൂർണ്ണ ശക്തിയോടെ ഒരു പുതിയ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഇപ്പോൾ വില്യം ഷേക്സ്പിയറുടെ ഏറ്റവും പ്രശസ്തമായ നാടകമായ ഹാംലെറ്റിൽ വരുന്ന രസകരമായ ഒരു ചിന്തയോടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു പിതാവ് ഒരു മകന് നൽകിയ ഉപദേശമാണ് പൊളോണിയസ് തന്റെ മകൻ ലാർട്ടസിന് നൽകിയ ഉപദേശമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത് നിഗമനത്തിനായി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളെങ്കിലും മോശം ശീലങ്ങൾ ഒഴിവാക്കുക നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുക എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ആ നല്ല ശീലങ്ങൾ എന്താണെന്നും ആ മോശം ശീലങ്ങൾ എന്താണെന്നും നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം ഞാൻ ചിലത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇവ നല്ല ശീലങ്ങളാണെന്നും ഇവ മോശം ശീലങ്ങളാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളോ മറ്റാരെങ്കിലുമോ നിങ്ങളെ മേൽനോട്ടം വഹിക്കാൻ പോകുന്നില്ല നിങ്ങൾ അവരെ രൂപീകരിക്കാൻ പോകുകയാണെങ്കിലും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ അവ ഉപയോഗിക്കാൻ പോകുകയാണോ ഇത് ഉപയോഗിച്ച് നിങ്ങൾ ശരിക്കും മേൽപ്പറഞ്ഞ ശരാശരിയിൽ നിന്ന് മികവിലേക്ക് മാറാൻ പോകുകയാണോ കാരണം ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത് അപ്പോൾ ഞാൻ ഒരു നല്ല ശീലം രൂപപ്പെടുത്താൻ ശ്രമിക്കും എന്നാൽ ആരെങ്കിലും അവിടെ ഇല്ല ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും തുടർന്ന് ഒരു മോശം ശീലം വളർത്തുകയും ചെയ്യും അതിനാൽ ഷേക്സ്പിയർ പറയുന്നത് ഇതാണ് എല്ലാറ്റിനുമുപരിയായി അദ്ദേഹം ഇത് പറയുന്നത് സ്വയം സത്യമായിരിക്കാനാണ് നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ധാരാളം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ എല്ലാറ്റിനുമുപരിയായി നിങ്ങളോട് പറഞ്ഞതെന്തും സ്വയം സത്യസന്ധരായിരിക്കുക നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുക നിങ്ങൾ മറ്റൊരാളോട് സത്യസന്ധത പുലർത്തേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് സത്യസന്ധത പുലർത്തേണ്ടതില്ല നിങ്ങളുടെ മാതാപിതാക്കളോട് സത്യസന്ധത പുലർത്തേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ മേലധികാരിയോട് സത്യസന്ധത പുലർത്തേണ്ടതില്ല നിങ്ങളുടെ പങ്കാളികളോട് സത്യസന്ധത പുലർത്തേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് സത്യസന്ധത പുലർത്തേണ്ടതില്ല നിങ്ങളുടെ അയൽക്കാരനോട് സത്യസന്ധത പുലർത്തേണ്ടതില്ല പക്ഷേ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക അത് രാത്രിയെ പകലായി പിന്തുടരണം അപ്പോൾ നിങ്ങൾ ആരോടും കള്ളം പറയരുത് നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും പതിവായി നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുമെന്ന് സ്വയം വാഗ്ദാനം ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആരോടും കള്ളം പറയില്ലെന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു മോശം ശീലവും ഉണ്ടാക്കില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ആഴ്ച പൂർത്തിയാക്കാൻ ഒരു പ്രഭാഷണം കൂടി മാത്രമേയുള്ളൂ ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു

നന്ദി